നമസ്കാരം ഇന്നത്തെ സെഷനിൽ സർക്യൂട്ടിന്റെ രണ്ടാമത്തെ ഓർഡർ പ്രതികരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യും ഇൻഡക്റ്റർ കപ്പാസിറ്റർ റെസിസ്റ്റർ എന്നിവ അടങ്ങിയിരിക്കുന്ന സർക്യൂട്ടുകൾ എല്ലാ 3 ഘടകങ്ങളും ഉണ്ട് അല്ലെങ്കിൽ 2 ഇൻഡക്റ്ററുകൾ അല്ലെങ്കിൽ 2 കപ്പാസിറ്ററുകൾ ഉണ്ട് അവ തുല്യമായ ഇൻഡക്റ്റർ അല്ലെങ്കിൽ കപ്പാസിറ്ററായി മാറ്റാൻ കഴിയില്ല അതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ സർക്യൂട്ട് പരിഹരിക്കും ഇന്നത്തെ പ്രഭാഷണത്തിൽ ചർച്ച ചെയ്യും അതിനാൽ രണ്ടാമത്തെ ഓർഡർ പ്രതികരണത്തെക്കുറിച്ചുള്ള ചർച്ച ആരംഭിക്കാം രണ്ടാമത്തെ ഓർഡർ സർക്യൂട്ട് എന്നതിന്റെ അർത്ഥമെന്താണെന്ന് ആദ്യം മനസിലാക്കാം രണ്ടാമത്തെ ഓർഡർ സർക്യൂട്ടിന്റെ സവിശേഷത രണ്ടാമത്തെ ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യമാണ് നമുക്ക് രണ്ടാമത്തെ ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യം ഉള്ളപ്പോൾ സർക്യൂട്ടിനെ രണ്ടാമത്തെ ഓർഡർ സർക്യൂട്ടായി കണക്കാക്കാം ഇപ്പോൾ 2 സ്റ്റോറേജ് ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന സർക്യൂട്ടിൽ പ്രത്യേകിച്ചും ഇൻഡക്ടറുകളും കപ്പാസിറ്ററുകളും അടങ്ങിയിരിക്കുന്നുവെന്ന് പറയാം തുടർന്ന് അവയെ രണ്ടാമത്തെ ഓർഡർ സർക്യൂട്ട് എന്ന് വിളിക്കുന്നു കാരണം അവയുടെ പ്രതികരണങ്ങളിൽ രണ്ടാമത്തെ ഓർഡർ ഡെറിവേറ്റീവുകൾ അടങ്ങിയിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ ഉൾപ്പെടുന്നു രണ്ടാമത്തെ ഓർഡർ സർക്യൂട്ടുകൾക്ക് സാധാരണയായി സീരീസ് RLC സർക്യൂട്ട് അല്ലെങ്കിൽ സമാന്തര RLC സർക്യൂട്ടുകൾ അല്ലെങ്കിൽ വ്യത്യസ്ത തരം അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള 2 സ്റ്റോറേജ് ഘടകങ്ങൾ സീരീസ് ചെയ്യാൻ കഴിയും ഒരേ തരം അർത്ഥമാക്കുന്നത് മൂലകങ്ങൾ 2 ഇൻഡക്റ്ററുകളോ 2 കപ്പാസിറ്ററുകളോ ആകാമെങ്കിലും ഈ ഘടകങ്ങളെ തുല്യമായ ഒരൊറ്റ മൂലകത്താൽ പ്രതിനിധീകരിക്കാൻ കഴിയില്ല അതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ രണ്ടാമത്തെ ക്രമമായ ഭരണ സമവാക്യങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട് ഇപ്പോൾ അത്തരം സർക്യൂട്ടുകളുടെ ഉദാഹരണം നമുക്ക് നോക്കാം ഇതൊരു സീരീസ് RLC സർക്യൂട്ടാണ് ഇത് രണ്ടാമത്തെ ഓർഡർ സർക്യൂട്ടാണ് കൂടാതെ സമാന്തര RLC സർക്യൂട്ടും രണ്ടാമത്തെ ഓർഡർ സർക്യൂട്ട് ആണ് ഇപ്പോൾ 2 ഇൻഡക്റ്ററുകൾ ഉണ്ടെങ്കിൽ ഒരു ഇൻഡക്റ്ററായി പ്രതിനിധീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലും അത് രണ്ടാമത്തെ ഓർഡർ സർക്യൂട്ടായി കണക്കാക്കാം അതുപോലെ നമുക്ക് ഈ 2 കപ്പാസിറ്ററുകൾ ഉണ്ടെങ്കിലും സർക്യൂട്ടിന്റെ ഒരൊറ്റ തുല്യ കപ്പാസിറ്ററായി പ്രതിനിധീകരിക്കാൻ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് രണ്ടാമത്തെ ഓർഡർ സർക്യൂട്ടായി കണക്കാക്കും ഇത്തരത്തിലുള്ള സർക്യൂട്ടുകളുടെ പ്രാരംഭവും അന്തിമവുമായ മൂല്യങ്ങൾ എങ്ങനെ കണ്ടെത്തുമെന്ന് ആദ്യം മനസിലാക്കണം വോൾട്ടേജിനും കറന്റിനുമുള്ള പ്രാരംഭവും അന്തിമവുമായ മൂല്യങ്ങൾ കണ്ടെത്തുന്നത് എളുപ്പമാണ് സമയം t 0 ന് തുല്യമാകുമ്പോൾ അല്ലെങ്കിൽ സമയം ഇൻഫിനിറ്റിയിലാകുമ്പോൾ സർക്യൂട്ടിന്റെ പരിശോധന നടത്തുമ്പോൾ നിങ്ങൾക്ക് ഇത് നേടാനാകും എന്നാൽ പാസ്സീവ് മൂലകങ്ങളുടെ ഡെറിവേറ്റീവുകളുടെ പ്രാരംഭ മൂല്യം കണ്ടെത്തുന്നത് അൽപ്പം ബുദ്ധിമുട്ടാണ് അതിനാൽ പ്രാരംഭ വ്യവസ്ഥകൾ നിർണ്ണയിക്കുമ്പോൾ 2 പ്രധാന കാര്യങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് ആദ്യത്തേത് കപ്പാസിറ്ററിന് കുറുകെയുള്ള വോൾട്ടേജിന്റെ പൊളാരിറ്റിയും ഇൻഡക്റ്ററിലൂടെയുള്ള കറന്റ് ദിശയും രണ്ടാമത്തേത് കപ്പാസിറ്ററിന് കുറുകെയുള്ള വോൾട്ടേജിന് പെട്ടെന്ന് മാറാൻ കഴിയില്ല അതിനാൽ കപ്പാസിറ്ററിന്റെ കാര്യത്തിൽ വോൾട്ടേജ് വോൾട്ടേജ് ന് തുല്യമാണെന്ന് പറയുന്നു അതുപോലെ ഇൻഡക്റ്ററിന്റെ കാര്യത്തിൽ ഇൻഡക്റ്റർ കറന്റ് പെട്ടെന്ന് മാറാൻ കഴിയില്ല അതിനാൽ കറന്റ് കറന്റ് ന് തുല്യമാണെന്ന് പറയുന്നു അതിനാൽ പ്രാരംഭ വ്യവസ്ഥകൾ കണ്ടെത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പെട്ടെന്ന് മാറാൻ കഴിയാത്ത വേരിയബിളുകളിലാണ് ഇതിനർത്ഥം ഇൻഡക്റ്ററിലൂടെ ഒഴുകുന്ന ഇൻഡക്റ്റർ കറന്റിന്റെയും കപ്പാസിറ്ററിന്റെ വോൾട്ടേജിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും ഇപ്പോൾ നമുക്ക് സോഴ്സ് ഫ്രീ സീരീസ് ആർഎൽസി സർക്യൂട്ടിന്റെ കാര്യം നോക്കാം ഉറവിടങ്ങളൊന്നുമില്ലാതെ ആർ എൽ സി എന്നിവയുടെ സീരീസ് സംയോജനമായ സർക്യൂട്ടുകളുടെ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും അതിനാൽ ഇൻഡക്ടറിലൂടെ ചില പ്രാരംഭ കറന്റ് പ്രവാഹമുണ്ടെന്നും മൂല്യം ആണെന്നും കപ്പാസിറ്റർ തുടക്കത്തിൽ ചില വോൾട്ടേജ് ഉപയോഗിച്ച് ചാർജ് ചെയ്യുമെന്നും അനുമാനിക്കുന്നു അതിനാൽ ഈ രണ്ടും സർക്യൂട്ടിലേക്ക് കറന്റ് നൽകുന്ന ഒരു ഉറവിടമായി കണക്കാക്കും അതിനാൽ ഇപ്പോൾ നമുക്ക് എഴുതാൻ കഴിയുന്നത് സമയം 0 ന് തുല്യമാകുമ്പോൾ v ഒന്നാം സമവാക്യത്തിലെ പോലെ കറന്റിന്റെ ഇന്റഗ്രൽ എന്ന് എഴുതാം ഇത് ന് തുല്യമായിരിക്കും കാരണം ഇത് നമ്മുടെ പ്രാരംഭ അവസ്ഥയാണ് അതുപോലെ i അതായത് സമയം t 0 ന് തുല്യമാകുമ്പോൾ കറന്റ് ആയിരിക്കും ഇപ്പോൾ ഈ ലൂപ്പിന് ചുറ്റും കെവിഎൽ എഴുതുകയാണെങ്കിൽ ഈ ലൂപ്പിൽ കറന്റ് ഒഴുകുന്നുവെന്ന് അനുമാനിക്കുന്നു മൂന്നാം സമവാക്യത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഈ ലൂപ്പിനായി കെവിഎൽ സമവാക്യം എഴുതാം ഈ സമവാക്യത്തിൽ നിന്ന് സമയത്തെ അടിസ്ഥാനമാക്കി ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്നതിലൂടെ ഇന്റഗ്രേഷൻ ഭാഗം ഒഴിവാക്കാനാകും ഡിഫറൻഷിയേഷൻ ചെയ്താൽ നിങ്ങൾക്ക് സമവാക്യം ലഭിക്കും അതിനാൽ സമവാക്യത്തിന്റെ രണ്ടാമത്തെ ഡെറിവേറ്റീവ് പുനക്രമീകരിക്കുകയാണെങ്കിൽ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നതുപോലെ നിങ്ങൾക്ക് സമവാക്യം ലഭിക്കും സമവാക്യത്തിന് രണ്ടാമത്തെ ഓർഡർ ഡെറിവേറ്റീവ് ഉണ്ടെന്ന് കാണാൻ കഴിയും അതിനാലാണ് ഇതിനെ രണ്ടാമത്തെ ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യം എന്ന് വിളിക്കുന്നത് ഇപ്പോൾ അത്തരമൊരു രണ്ടാമത്തെ ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യം പരിഹരിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ 2 പ്രാരംഭ നിബന്ധനകൾ ആവശ്യമാണ് വൈദ്യുതധാരയുടെ പ്രാരംഭ മൂല്യം ന് തുല്യമാണെന്ന് നമുക്കറിയാം അടുത്തതായി നിങ്ങൾ കറന്റിന്റെ പ്രാരംഭ മൂല്യത്തിന്റെ ആദ്യ ഡെറിവേറ്റീവ് കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ 0 എന്നതിന് തുല്യമായ സമയത്ത് മൂല്യം കണക്കാക്കേണ്ടതുണ്ട് കപ്പാസിറ്ററിന് കുറുകെയുള്ള വോൾട്ടേജിന്റെ പ്രാരംഭ മൂല്യവും നമുക്കറിയാം സമവാക്യം ൽ നൽകിയിരിക്കുന്നതുപോലെ നമുക്ക് ആ മൂല്യം ഉപയോഗിക്കാൻ കഴിയും അതിനാൽ ഈ സമവാക്യത്തിനായി നിങ്ങൾക്ക് എന്താണ് എഴുതാൻ കഴിയുക സമവാക്യം എന്നിവയിൽ നൽകിയിരിക്കുന്നതുപോലെ നിങ്ങൾക്ക് എഴുതാം അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ കൈയിൽ I ന്റെ പ്രാരംഭ മൂല്യവും യുടെ പ്രാരംഭ മൂല്യവും ഉണ്ട് അത് സമവാക്യം പരിഹരിക്കാൻ ഉപയോഗിക്കാം ആർഎൽ സർക്യൂട്ടിൻറെയും ആർസി സർക്യൂട്ടിന്റെയും ഉറവിടം ഇല്ലാത്ത പ്രതികരണത്തെക്കുറിച്ചുള്ള മുമ്പത്തെ ചർച്ച കണ്ടാൽ സാധാരണയായി ഇത്തരത്തിലുള്ള സർക്യൂട്ടുകളുടെ പരിഹാരം എക്സ്പോണൻഷ്യലാണെന്ന് മനസ്സിലാക്കി അതിനാൽ ഈ കേസിനുള്ള പരിഹാരം സമവാക്യം ൽ നൽകിയിട്ടുള്ളതാണെന്ന് നമുക്ക് അനുമാനിക്കാം അതിനാൽ Aσ എന്നിവ നമ്മൾ നിർണ്ണയിക്കേണ്ട സ്ഥിരതകളാണ് ഇപ്പോൾ എന്തു ചെയ്യും സമവാക്യം ൽ അനുമാനിച്ച വൈദ്യുതധാരയുടെ മൂല്യം സമവാക്യം ൽ ഇടും ഇതിനർത്ഥം നിങ്ങൾ അതിനെ രണ്ടുതവണ വേർതിരിക്കുമെന്നതിനാൽ സമവാക്യം പോലെ ആദ്യത്തെ ഘടകം നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ സമവാക്യത്തിന്റെ മറ്റ് നിബന്ധനകളും സമവാക്യം ൽ ലഭിക്കും ഈ സമവാക്യം അതിന്റെ അന്തിമ രൂപം നേടുന്നതിന് മാറ്റിയെഴുതാം ഇപ്പോൾ ഈ തരത്തിലുള്ള സമവാക്യങ്ങളുടെ പരിഹാരം ആ സാഹചര്യത്തിൽ 0 ന് തുല്യമാകാൻ കഴിയാത്ത ഘടകം കാണുകയാണെങ്കിൽ കാരണം ഇത് പരിഹാരത്തിനായുള്ള ഞങ്ങളുടെ പ്രാരംഭ അനുമാനമാണ് അതിനാൽ ഇത് 0 ആകാൻ പാടില്ല 0 എന്നതിന് തുല്യമായ രണ്ടാമത്തെ പദം ശേഷിക്കുന്നു അതിനാൽ ഇതിനുള്ള ഭരണ സമവാക്യമാണെന്ന് ഞങ്ങൾ പറയും ഇതൊരു ക്വാഡ്രാറ്റിക് സമവാക്യമാണ് ഈ തരം സമവാക്യങ്ങൾ നമ്മൾ ഇപ്പോൾ കണ്ട ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ സ്വഭാവ സമവാക്യമായി പറയുന്നു അതിനാൽ ഇത് ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ സ്വഭാവ സമവാക്യമായി കണക്കാക്കും ഇപ്പോൾ ഇത് രണ്ടാമത്തെ ഓർഡർ സമവാക്യമാണെന്ന് കാണുകയും അത് പരിഹരിക്കുകയും ചെയ്താൽ ഈ സമവാക്യത്തിന് 2 റൂട്ടുകൾ ഉണ്ടെന്ന് നിങ്ങൾ പറയും അതിനാൽ ഈ റൂട്ടുകൾ ഉം ഉം ആണെന്ന് നമുക്ക് പറയാം സമവാക്യങ്ങൾ 9 എ 9 ബി എന്നിവയിൽ നൽകിയിരിക്കുന്നതുപോലെ ഈ റൂട്ടുകളുടെ മൂല്യം കണ്ടെത്താൻ കഴിയും ഈ ക്വാഡ്രാറ്റിക് സമവാക്യം പരിഹരിക്കണം ഇത് പരിഹരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്നിവ ലഭിക്കും അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ കൈയിൽ ഈ 2 റൂട്ടുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതൽ ഒതുക്കമുള്ള രീതിയിൽ പ്രതിനിധീകരിക്കാൻ കഴിയും നിങ്ങൾ എങ്ങനെ പ്രതിനിധീകരിക്കും αR2L ഉം ഉം പ്രതിനിധീകരിക്കട്ടെ അതിനാൽ നിങ്ങൾ ഈ 2 ഘടകങ്ങൾ ഊഹിക്കുകയും എന്നിവയുടെ മൂല്യം ഈ പ്രത്യേക രൂപത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്താൽ സമവാക്യം ൽ നൽകിയിരിക്കുന്നതുപോലെ ഇത് ലളിതമാക്കാൻ കഴിയും ഇപ്പോൾ ആയ ഈ 2 റൂട്ടുകളെ സ്വാഭാവിക ആവൃത്തികൾ എന്ന് വിളിക്കുന്നു അവ സെക്കൻഡിൽ നേപേർസ് പെർ സെക്കൻഡിൽ അളക്കുന്നു ശരി എന്നത് സെക്കൻഡിൽ റേഡിയൻസിൽ പ്രകടമാകുന്ന സിസ്റ്റത്തിന്റെ റെസൊണന്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ അൺഡാംപ്ഡ് നാച്ചുറൽ ഫ്രീക്വൻസി എന്നാണ് അറിയപ്പെടുന്നത് α എന്നത് ഡാപിംഗ് ഫാക്ടറാണ് ഇത് നേപേർസ് പെർ സെക്കൻഡിൽ വീണ്ടും പ്രകടിപ്പിക്കുന്നു α ω എന്നിവയുടെ മൂല്യങ്ങൾ സമവാക്യം 8 എ ലഭിക്കുന്നതിന് സമവാക്യം ൽ ചേർത്തു ഇപ്പോൾ ഇത് സാധ്യമായ 2 പരിഹാരങ്ങളുണ്ടെന്ന് സൂചിപ്പിക്കുന്നു അതിനാൽ നമുക്ക് എന്ത് പറയാൻ കഴിയും സമവാക്യം പോലെ 2 പരിഹാരങ്ങൾ ഉണ്ടാകാം അതിനാൽ എന്നീ വൈദ്യുതധാരയ്ക്ക് 2 പരിഹാരങ്ങൾ നമുക്ക് ലഭിക്കും ഇപ്പോൾ യഥാർത്ഥ സമവാക്യം ഒരു രേഖീയ സമവാക്യമാണ് അതിനാൽ എന്നീ 2 വ്യത്യസ്ത പരിഹാരങ്ങളുടെ ഏതെങ്കിലും രേഖീയ സംയോജനവും ഈ സമവാക്യത്തിന്റെ പരിഹാരമാണ് അതിനാൽ മുകളിലുള്ള സമവാക്യത്തിന്റെ പൂർണ്ണ പരിഹാരത്തിനായി നമുക്ക് എന്നിവയുടെ രേഖീയ സംയോജനം ആവശ്യമാണ് സമവാക്യം ൽ നൽകിയിരിക്കുന്നതുപോലെ ഇത് എഴുതാം അതിനാൽ ഇത് സീരീസ് ആർഎൽസി സർക്യൂട്ടുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഓർഡർ സമവാക്യത്തിന്റെ പരിഹാരമായിരിക്കും ഇപ്പോൾ ഇവിടെ എന്നിവ ചില സ്ഥിരാങ്കങ്ങളാണ് സമയം t 0 ന് തുല്യമാകുമ്പോൾ i ന്റെ സഹായത്തോടെയും സമയം t 0 ന് തുല്യമാകുമ്പോൾ ഉം ഈ മൂല്യങ്ങൾ ഇതിനകം നമ്മുടെ കൈയിലുണ്ട് അതിനാൽ ഈ സമവാക്യങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ 3 നിബന്ധനകളുള്ള സ്വഭാവ സമവാക്യങ്ങളുടെ റൂട്ടുകളായ എന്ന് പറയാൻ കഴിയും അല്ലെങ്കിൽ എന്നിവയുടെ റൂട്ടുകളുമായി ബന്ധപ്പെട്ട 3 സാധ്യമായ പരിഹാരങ്ങൾ ഉണ്ടെന്ന് പറയുന്നു എന്താണ് ആ പരിഹാരങ്ങൾ ആദ്യത്തേത് ɑ സിസ്റ്റം ഓവർഡാമ്പ്ഡ് ആണെന്നും ɑ ഇത് ക്രിട്ടിക്കലി ഡാംപ്ഡ് കേസാണെന്നും ɑ ആണെങ്കിൽ അണ്ടർഡാമ്പ്ഡ് ചെയ്തതാണെന്നും പറയുന്നു ഇപ്പോൾ സിസ്റ്റം ഓവർഡാമ്പ് ചെയ്യുമ്പോൾ ആദ്യത്തെ കേസ് നമുക്ക് നോക്കാം ɑ ɑ എന്നാൽ മൂല്യം നമുക്ക് ഇതിനകം അറിയാവുന്ന ɑ എന്നിവയുടെ മൂല്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ലഭിക്കുന്നത് ഈ സാഹചര്യത്തിൽ സ്വഭാവ സമവാക്യത്തിന്റെ എന്നീ റൂട്ടുകൾ നെഗറ്റീവ് യഥാർത്ഥമാണ് അതിനാൽ പ്രതികരണം സമവാക്യം ലെന്നപോലെ ആയിരിക്കും സമയ ടി യുമായി ബന്ധപ്പെട്ട് കറന്റിന്റെ മൂല്യം പ്ലോട്ട് ചെയ്യുന്ന കർവ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഇതായിരിക്കും സമയം ടി കൂടുന്നതിനനുസരിച്ച് അത് ക്ഷയിക്കുകയും 0 ലേക്ക് അടുക്കുകയും ചെയ്യുന്നു അതിനാൽ ɑ ആയിരിക്കുമ്പോൾ കേസിന്റെ പ്രതികരണത്തിന്റെ തരം ഇതായിരിക്കും അതിനർത്ഥം സിസ്റ്റം ഓവർഡാമ്പ് ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ രണ്ടാമത്തെ കേസ് സിസ്റ്റം ക്രിട്ടിക്കലി ഡാംപ് ɑ എന്നാണ് അതിനാൽ ആ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും ɑ എന്നാൽ മൂല്യം അല്ലെങ്കിൽ നമുക്ക് ɑ എന്ന് പറയാൻ കഴിയും ഇതിനുള്ള പരിഹാരം ആണ് ഇപ്പോൾ ഇത് ഒരു പരിഹാരമാകില്ല കാരണം നമ്മൾ കണ്ട 2 പ്രാരംഭ വ്യവസ്ഥകൾ അതായത് i സമയത്ത് t 0 ന് തുല്യമാണ് didt ഒരൊറ്റ സ്ഥിരമായ A3 ഉപയോഗിച്ച് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല അതിനാൽ എക്സ്പൊണൻഷ്യൽ സൊല്യൂഷനെക്കുറിച്ചുള്ള പ്രാഥമിക അനുമാനം ക്രിട്ടിക്കലി ഡാമ്പിംഗിന്റെ ഈ പ്രത്യേക കേസിൽ തെറ്റാണ് അതിനാൽ ഇപ്പോൾ എന്തു ചെയ്യും സമവാക്യം ൽനൽകിയിരിക്കുന്നതുപോലെ നമുക്ക് സമവാക്യം മാറ്റിയെഴുതാം സമവാക്യം ൽ ബ്രാക്കറ്റ്ലെ പദം ഏതോ ഫംഗ്ഷൻ f ആണെന്ന് നമുക്ക് അനുമാനിക്കാം അതിനാൽ എന്താണ് എഴുതാൻ കഴിയുക നിങ്ങൾ f ന്റെ മൂല്യം സമവാക്യം ൽ ഇടുകയാണെങ്കിൽ ഈ സമവാക്യം ആയി മാറും ഇപ്പോൾ ഇതിന്റെ പരിഹാരം ഒരു ആദ്യ ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യമാണ് ഉറവിട സ്വതന്ത്ര പ്രതികരണത്തിന്റെ കാര്യത്തിൽ ആർസി അല്ലെങ്കിൽ ആർഎൽ സർക്യൂട്ടുകൾ സീരീസ് ചർച്ചചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള സമവാക്യങ്ങൾ കണ്ടു അതിനാൽ ഈ സമവാക്യത്തിന്റെ പരിഹാരം ആയിരിക്കും ഇവിടെ ഒരു സ്ഥിരമാണ് ഇപ്പോൾ മുകളിലുള്ള പരിഹാരത്തിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ

ഈ സമവാക്യം ലഭിക്കുന്നതിന് എന്ന് മാറ്റിയെഴുതാം സമവാക്യം ൽ നൽകിയിരിക്കുന്നതുപോലെ നിങ്ങൾക്ക് i യുടെ മൂല്യം ലഭിക്കും നിങ്ങൾ ഇത് ലളിതമായി ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് മറ്റൊരു സ്ഥിരമായ A2 ലഭിക്കും ഇപ്പോൾ ക്രിട്ടിക്കലി ഡാംപ് സർക്യൂട്ടിന്റെ സ്വാഭാവിക പ്രതികരണം 2 പദങ്ങളുടെ ആകെത്തുകയാണ് ഒന്ന് നെഗറ്റീവ് എക്സ്പോണൻഷ്യൽ മറ്റൊന്ന് നെഗറ്റീവ് എക്സ്പോണൻഷ്യൽ ഒരു ലീനിയർ പദം കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതും അതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ പ്രതികരണം എന്തായിരിക്കും സമയവുമായി ബന്ധപ്പെട്ട് കറന്റ് i യുടെ വ്യതിയാനം പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ പ്രതികരണം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ആയിരിക്കും ഇപ്പോൾ t 1α ന് തുല്യമാണെന്ന് നിങ്ങൾ കണ്ടാൽ എന്ത് സംഭവിക്കും അതിനാൽ t 1α ൽ പരമാവധി മൂല്യം ആയിരിക്കും പരമാവധി മൂല്യം ഉം ആയിരിക്കും അതിനാൽ 1 സമയ സ്ഥിരതയ്ക്ക് ശേഷം കറന്റ് അതിന്റെ ഏറ്റവും ഉയർന്ന മൂല്യത്തിലേക്ക് എത്തും അത് പതുക്കെ 0 ആയി ക്ഷയിക്കും അതിനാൽ സിസ്റ്റം ക്രിട്ടിക്കലി ഡാംപ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതികരണം നിങ്ങൾ കാണും ഇപ്പോൾ മൂന്നാമത്തെ കേസ് ɑ ɑ എന്നാൽ മൂല്യം അതിനാൽ എന്ന റൂട്ടുകൾ എന്നിവയിൽ നൽകിയിരിക്കുന്നു 1 ന്റെ റൂട്ട് കോമ്പ്ലെക്സ് വേരിയബിൾ j ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാം അതിനാൽ നിങ്ങൾക്ക് എന്നും എന്നും പറയാം ഇവിടെ ഇപ്പോൾ ɑ ആണെങ്കിൽ ഈ ഘടകം എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ 1 പുറത്തെടുത്തത് അതിനാൽ ഈ എന്നത് ഡാംപിംഗ് ഫ്രീക്വൻസി അല്ലാതെ മറ്റൊന്നുമല്ല എന്നത് സ്വാഭാവിക ഫ്രീക്വൻസിയും ആണ് അതിനാൽ ഞങ്ങൾക്ക് ലഭിച്ച പരിഹാരത്തിൽ നിങ്ങൾ എന്നിവയുടെ മൂല്യം ഇടുകയും സമവാക്യം ലെന്നപോലെ പുനക്രമീകരിക്കുകയും ചെയ്യുക അതിനാൽ t യുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കറന്റിന്റെ പ്രതികരണം ലഭിക്കും സമവാക്യം ൽ യൂലറുടെ ഐഡന്റിറ്റി Euler's identity പ്രയോഗിച്ചാൽ നമുക്ക് സമവാക്യം ലഭിക്കും അതിനാൽ സമയവുമായി ബന്ധപ്പെട്ട് വൈദ്യുതപ്രവാഹത്തിനായി ഇത് ലളിതമാക്കും ഇപ്പോൾ ഈ സമവാക്യം കാണുകയാണെങ്കിൽ സിസ്റ്റത്തിന് കോസൈൻ പദങ്ങളും സൈൻ പദങ്ങളും ഉണ്ടായിരിക്കുമെന്ന് പറയും അതിൽ സിനുസോയ്ഡൽ പദങ്ങളും എക്സ്പോണൻഷ്യൽ പദങ്ങളും കാണും അതിനാൽ പ്രതികരണം എങ്ങനെയായിരിക്കും അങ്ങനെയാണെങ്കിൽ വൈദ്യുതപ്രവാഹത്തിനുള്ള പ്രതികരണം കണ്ടാൽ അത് ഇ ടു പവർ മൈനസ് ഫാക്ടറിന്റെ എക്സ്പോണൻഷ്യൽ ഫാക്ടർ കാരണം അത് എക്സ്പോണൻഷ്യൽ ആയി ക്ഷയിക്കും അതിനാൽ സമവാക്യത്തിൽ സൈൻ കോസ് പദങ്ങൾ ഉള്ളതിനാൽ ഇത് എക്സ്പോണൻഷ്യൽ ആയി ക്ഷയിക്കുന്നുവെന്നും സിനുസോയിഡലി വ്യത്യാസമുണ്ടെന്നും കാണും അതിനാൽ സമയ സ്ഥിരത 1a പിരീഡ് t എന്നിവ ന് തുല്യമാണ് അതിനാൽ ഇത് ചിത്രത്തിൽ നിന്ന് കാണാൻ കഴിയും അതിനാൽ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കും അടുത്ത പ്രഭാഷണത്തിൽ ചർച്ച തുടരും കൂടാതെ ആർഎൽസി സർക്യൂട്ടിൽ സ്റ്റെപ്പ് ഇൻപുട്ട് പ്രയോഗിക്കുമ്പോൾ അത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് കാണും